നമസ്കാരം കഴിഞ്ഞ രണ്ടു ക്ലാസ്സുകളിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവേര്ണൻസിനെ കുറിച്ച് സംസാരിച്ചു ആദ്യം നമ്മൾ എന്താണ് ഗവേർനെൻസ് ഇതെല്ലം ഉണ്ട് ഇന്ന് നമുക്ക് വളരെ രസകരമായ ഒരു കേസ് നോക്കാം എൻറോൺ കേസ് 2001ൽ സംഭവിച്ച ഈ കേസ് കോർപ്പറേറ്റ് തട്ടിപ്പിന്റെയും പരാജയമായ കോർപ്പറേറ്റ് ഗവേര്ണൻസിന്റെയും ഒരു മാതൃക ആണ് എല്ലാ തരത്തിലും വിജയകരമായിരുന്ന ഒരു കമ്പനി ഒരു നല്ല കമ്പനി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു പോന്ന ഒരു കമ്പനി പെട്ടന്ന് തട്ടിപ്പ് കമ്പനി ആയി ലോകത്തിലെ തന്നെ ഗവേര്ണൻസ് സംവിധാനങ്ങൾ മാറ്റി മറിച്ച ഈ കേസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്

ആദ്യം ഈ കേസിന്റെ പശ്ചാത്തലം നമ്മുക് ഒന്ന് നോക്കാം എൻറോൺ എന്ന കമ്പനി എങ്ങനെ പാപ്പരായി എന്ന് നോക്കാം ഊർജ്ജ വ്യവസായത്തിലെ ഒരു ഭീമൻ ആയിരുന്നു എൻറോൺ യൂ എസ് ലെ വൈദ്യുതി വിതരണത്തിൽ തുടങ്ങി പിന്നീട് നിർമാണ മേഖലയിലും അതിനു ശേഷം ലോകത്താകെ വൈദ്യുതി നിലയങ്ങൾ തുടങ്ങുകയും ചെയ്തു കമ്പനി തകരുമ്പോൾ കുറെ നിലയങ്ങൾ പണി തുടരുന്ന ഘട്ടത്തിൽ ആയിരുന്നു അപ്പോൾ ഇത് ഒരു പ്രൊഫെഷനലി മാനേജ്ഡ് കമ്പനി ആയിരുന്നു അതിനാൽ തന്നെ ഒരു ഓഹരിയുടമയ്ക്കും 20 21 ശതമാനത്തിനു മുകളിൽ ഓഹരി ഉണ്ടായിരുന്നില്ല സാധാരണയായി പറയപ്പെടുന്നത് ഇത്തരം പ്രൊഫഷണൽ മാനേജ്ഡ് കമ്പനികൾ ആണ് ഏതെങ്കിലും ഗ്രൂപ്പിന് കീഴിൽ ഉള്ളവയെക്കാൾ നല്ലത് എന്നാണു സ്ഥാപനങ്ങൾ കോര്പറേഷനുകൾ ബാങ്കുകൾ ചാരിറ്റികൾ ചെറിയ നിക്ഷേപകർ ഇവരൊക്കെ ആയിരുന്നു പ്രധാന ഓഹരിയുടമകൾ തത്വത്തിൽ ഒരു അമേരിക്കൻ കമ്പനി ആയിരുന്ന എൻറോൺ നയിച്ചിരുന്നത് ഒരു നല്ല മാനേജ്മെന്റ് ടീം ആയിരുന്നു ഹ്യൂസ്റ്റൺ തലസ്ഥാനമായ കമ്പനി ഊർജ്ജ വ്യാപാര വിതരണത്തിൽ തുടങ്ങി പിന്നീട് ഊർജ്ജ നിര്മാണത്തിലേക്കും കടന്നു എനർജി ഡിറെഗുലേഷന്റെ ശക്തമായ വക്താക്കൾ ആയിരുന്ന കമ്പനി വിതരണ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കുറെ അധികം ചിലവാക്കേണ്ടി വന്നിരുന്നു കേവലം 15 വർഷത്തിൽ 21000 ജീവനക്കാരോടെ യു എസ് ലെ ഏറ്റവും വലിയ ഏഴാമത്തെ കമ്പനിയും ലോകത്തിലെ ഏറ്റവും വലിയ പതിനാറാമത്തെ കമ്പനിയും ആയി എൻറോൺ മാറി 2000 ആയപ്പോൾ സ്റ്റോക്ക് പ്രൈസ് 90 ഡോളർ ആയി വെറും 8 9 മാസത്തിൽ സ്റ്റോക്ക് പ്രൈസ് 40 ഡോളറിൽ നിന്ന് 90 ഡോളർ ആയി ഉയർന്നു അപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന് 80 ബില്യൺ ആയിരുന്നു ഓർക്കണം റവന്യു 139 ബില്യൺ ആയിരുന്ന 2001ൽ ഇത് വലിയ ഒരു സംഖ്യ ആണ് യു എസ് ലെ വളരെ വിജയകരമായ ഒരു കമ്പനി ആയിരുന്നു അത് കൺസൾറ്റൻറ്സ് കൂടി ആയിരുന്ന ആർതർ ആൻഡേഴ്സൺ ആയിരുന്നു കമ്പനി ഓഡിറ്റർസ് 14 അംഗ ബോർഡിൽ രണ്ടു പേര് മാത്രം ആയിരുന്നു അകത്തുള്ളവർ അവർ തന്നെ ആയിരുന്നു എക്സിക്യൂട്ടീവ് ഡിറക്ടർസും മറ്റു അംഗങ്ങൾ എല്ലാം പല കുടുംബങ്ങളിൽ നിന്നും പല ഗ്രൂപ്പിൽ നിന്നും ആയിരുന്നു അവർ എല്ലാവരും പ്രൊഫെഷണൽസ് മിക്കവാറും എല്ലാ ഡിറക്ടര്സിനും കമ്പനിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒപ്പം വിരമിക്കുന്നവർക് സ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല കമ്പനിയിൽ നിന്ന് വിരമിച്ചാലും അവർക്ക് പണം സമ്പാദിക്കാൻ ഈ സ്റ്റോക് മതിയായിരുന്നു തത്വത്തിൽ വളരെ ശക്തമായ ക്രമീകരണമായിരുന്നു കമ്പനിയുടേത് പക്ഷേ യഥാർത്ഥത്തിൽ കുറെ അധികം മോശം പ്രവണത അവിടെ നിലനിന്നിരുന്നു കമ്പനിയുടെ സീ എഫ് ഒ ആയ അൻഡ്രൂ ഫാസ്ററൌ ചില പാർട്ണർഷിപ് മെനഞ്ഞിരുന്നു കൊണ്ടോർ റാപ്റ്റർ എന്നിവ ആയിരുന്നു അതിൽ പ്രമുഖർ കമ്പനിയിലെ തന്നെ പ്രമുഖരായ ജീവനക്കാർ ചേർന്ന് പങ്കാളിത്ത സ്ഥാപനങ്ങൾ തുടങ്ങുകയും പ്രധാന കമ്പനി ആയ എൻറോൺ അതിൽ എല്ലാം നിക്ഷേപിക്കുകയും ചെയ്തു അങ്ങനെ അവർ മാത്രം ഉടമകൾ ആയ ബിസിനസുകളിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്തു 2000 ആണ്ടിൽ കമ്പനിയുടെ ചെയര്മാന് ആയിരുന്ന കെന്നേത് ലേ 3 തവണ ഡിക്ക് ചെനെയും ആയി കണ്ടുമുട്ടി ഓർക്കണം ഡിക്ക് ചെനെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യന് ആണ് അദ്ദേഹം US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ മീറ്റിംഗ്സ് എല്ലാം രാജ്യത്തിൻറെ ഊർജ നയം ചർച്ച ചെയ്യുന്നതിനായിരുന്നു 2001ൽ പുതിയ നയം പ്രഖ്യാപിച്ചപ്പോൾ അത് ഊർജ മേഖലക്കും പ്രത്യേകിച്ച് എൻറോൺ കമ്പനിക്കും ഗുണം ചെയ്യുന്ന ഒന്നായിരുന്നു അങ്ങനെ രാഷ്ട്രീയമായ ഒരു സ്വാധീനം ഉപയോഗിച്ച് രാജ്യത്തിൻറെ നയങ്ങൾ തന്നെ തങ്ങൾക് അനു കൂലമാക്കാൻ കമ്പനിക് സാധിച്ചു എന്നാൽ 2001 ആഗസ്റ്റ് 14നു വെറും ഒരു വർഷത്തിനുള്ളിൽ സി ഇ ഓ ആയിരുന്ന ജെഫ് സ്കില്ലിങ് രാജി വയ്ക്കുകയും കെന്നെത് ലെ വീണ്ടും സി ഇ ഓ ആവുകയും ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റ് ഇത് ഒരു ദുഃസൂചന ആയി കണക്കാക്കി സി ഇ ഓ രാജി വച്ചത് കമ്പനിയുടെ അസ്ഥിരാവസ്ഥ ആയി കണ്ടു സ്റ്റോക്ക് പ്രൈസ് കൂപ്പുകുത്താൻ തുടങ്ങി ഉടനെ ഒരു ചെയിൻ റിയാക്ഷൻ തുടങ്ങി വച്ചു എൻറോൺ അതിന്റെ സ്റ്റോക്കിന് എതിരെ ഹെഡ്ജ് ചെയ്തു എന്നാൽ സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞപ്പോൾ അത് കമ്പനിക് കൂടുതൽ കൂടുതൽ നഷ്ടം വരുത്തി വച്ചു പ്രവർത്തനങ്ങളിൽ നേരത്തെ തന്നെ നഷ്ടം നേരിട്ട കമ്പനി സ്റ്റോക്ക് പ്രൈസ് ഇടിവും കൂടെ ആയപ്പോൾ വളരെ കുറച്ചു സമയത്തിൽ തന്നെ നഷ്ടത്തിൽ ആവുകയും ചെയ്തു ഇവിടെ കാണുന്നത് പോലെ ഡിസംബർ 2001ൽ അവർ പാപ്പരായി ഇത് സ്റ്റോക്ക് പ്രൈസിന്റെ മാറ്റം ആണ് 2000 ജനുവരിയിൽ 40 ആയിരുന്ന സ്റ്റോക്ക് പ്രൈസ് 70 ആയി 2000 അവസാനത്തോടെ 90 ആയി പിന്നീട് 2001 അവസാനം ആയപ്പോൾ 95ൽ നിന്ന് ഒരു ഡോളർ ആയി കമ്പനി പാപ്പരായി അടച്ചു പൂട്ടേണ്ടി വന്നു ഇപ്പോൾ നിങ്ങൾക് മനസിലാകും ഗോവെർണൻസ് പരാജയപ്പെട്ടപ്പോൾ എങ്ങനെ ഇത്ര വലിയ ഒരു കമ്പനി പെട്ടന്ന് തകർന്നു എന്ന് അഴിമതി നിറഞ്ഞ ആളുകൾ പരസ്പരം പറ്റിച്ചു ഒടുവിൽ കമ്പനി അതിനു വലിയ വില കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഇതാണ് ഈ കമ്പനിയുടെ തകർച്ചയുടെ കഥ ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു സമൃദ്ധമായ കമ്പനി ആയിരുന്നു എൻറോൺ ആദ്യ ക്വാർട്ടറിൽ ഒക്കെ ലാഭകരമായിരുന്ന കമ്പനി ആദ്യമായി വലിയ നഷ്ടം റിപ്പോർട്ട് ചെയ്തത് ജൂലൈ ക്വാർട്ടറിൽ ആണ് ഒക്ടോബർ അവസാനമായപ്പോൾ 600 മില്യൺ മുകളിൽ നഷ്ടം വന്നപ്പോൾ സ്റ്റോക്ക് പ്രൈസ് 30 ൽ നിന്ന് 20ലേക് എത്തുകയും നവംബർ ആയപ്പോഴേക്കും കുറെ കാലങ്ങളായി കമ്പനി ലാഭം പെരുപ്പിച്ചു കാണിക്കുകയായിരുന്നു എന്നും മനസ്സിലാവുകയും ഒടുവിൽ ഡിസംബറിൽ കമ്പനി തകരുകയും ചെയ്തു ഇതാണ് കമ്പനിയുടെ ഗോവെർണൻസ് സ്ട്രക്ച്ചർ വളരെ സങ്കീർണം ആണ് അല്ല ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ബോർഡ് ഉണ്ട് ബോർഡിൻറെ ചെയര്മാന് കെൻ ലെ ആയിരുന്നു ഓഡിറ്റ് കമ്മിറ്റിയും കോമ്പൻസേഷൻ കമ്മിറ്റിയും ഉണ്ടായിരുന്നു ലെ കമ്പനി സി ഇ ഒ ആയിരുന്നപ്പോൾ ഫെസ്റ്റോ സി എഫ് ഒ ആയിരുന്നു പിന്നീട് കോസെയ് സി ഇ ഒ ആയി ടീമിൽ മറ്റു അംഗങ്ങളും ഉണ്ടായിരുന്നു കമ്പനിയുടെ നയങ്ങളും പെരുമാറ്റച്ചട്ടവും ബോർഡിനെയും മാനേജ്മെന്റിനെയും സഹായിക്കാൻ ഉണ്ടാകുന്നതായിരുന്നു കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഇല്ലാതെ പോയി കണക്കുകൾ നോക്കേണ്ടിയിരുന്ന ഓഡിറ്റേഴ്സിനും ഒന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു കമ്പനിയുടെ കോണ്സല്ട്ടന്റ്സ് കൂടെ ആയ അവർ കമ്പനി അക്കൌണ്ട് ദുരുപയോഗം ചെയ്യാൻ അനുവദിച്ചു വളരെ അധികം പണമുണ്ടാക്കി ഈ കോണ്സല്ട്ടന്റ്സിന്റെ തന്നെ ഭാഗമായിരുന്ന പുറമെ നിന്നുള്ള നിയമ സ്ഥാപനങ്ങൾക്കും കമ്പനിയിൽ നിന്ന് സാമ്പത്തിക പ്രതിഫലം ലഭിച്ചുക്കൊണ്ടിരുന്നു അതിനാൽ തന്നെ അവരും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി മറ്റു മേഖലകളിലും ഇൻേറണൽ ഓഡിറ്റോർസ് വിസിൽ ബ്ലോവേഴ്സ് ഒക്കെ പരാജയപെട്ടു കമ്പനിയുടെ അവ്യക്തമായ അക്കൌണ്ട് കണ്ട ഷെറോൺ വാടകിന്സ് ഒരു വിസിൽബ്ലോവർ ആയി പുറമെ നിന്നുള്ള ഒരു ആൾ എന്ന നിലക്ക് കമ്പനിയുടെ പല ബന്ധങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് അവരുടെ ശ്രദ്ധയിൽപെട്ടു അവർ ഇതേ പറ്റി ചെയര്മാന് ആയ കെന്നെത് ലെയ്ക്കും ഓഡിറ്റർ ആർതർ അണ്ടെർസോണിനും എഴുതുകയും വളരെ കുറച്ചു സമയത്തിൽ ഇതേ പറ്റി ലോകം അറിയുകയും കമ്പനി തകരുകയും ചെയ്തു ഇതാണ് കെന്നെത് ലെ ഈ സമയത്തെല്ലാംകമ്പനിയുടെ തലപ്പത്തു പല ശേഷിയിൽ ഇരിക്കുകയും ധാരാളം രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുകയും ചെയ്ത ലെ പ്രസിഡന്റ് ബുഷിന് 2001 ൽ ഒരു ലക്ഷം സംഭാവന ചെയ്യുകയും ചെയ്തു ബുഷ് അദ്ദേഹത്തിൻ്റെ ട്രാന്സിഷൻ ടീമിൽ അംഗം ആകുവാൻ ലെയേ ക്ഷണിക്കുകയും ചെയ്തു നമ്മളിൽ പലരും കരുതും ഇന്ത്യയിൽ ആണ് കൂടുതൽ അഴിമതി എന്ന് എന്നാൽ എൻറോൺ അമേരിക്കയിലെ അഴിമതിയുടെ ഒരു നേർ ചിത്രം ആണ് അവിടുത്തെ രണ്ടു രാഷ്ട്രീയ പാർട്ടികളെയും പിന്നിൽ നിന്ന് സഹായിക്കുകയും അതിന്റെ മറവിൽ അവരുടെ കള്ളത്തരങ്ങൾ ഒളിച്ചു വയ്ക്കാൻ കഴിയുകയും ചെയ്തു അപ്പോൾ കാരണങ്ങൾ എന്തായിരുന്നു അക്കൌണ്ടിംഗ് തട്ടിപ്പ് എന്തായിരുന്നു നോക്കൂ യഥാർത്ഥ ലാഭം വളരെ കുറവായിരുന്നു പക്ഷേ റിപ്പോർട്ടുചെയ്ത ലാഭം വളരെ ഉയർന്നതാണ് ഇത് 2000 ൽ മാത്രമല്ല അതിനു മുൻപ് നാല് വർഷമായി 96 മുതൽ 2000 വരെ തുടർച്ചയായി അക്കൌണ്ടിംഗ് കൃത്രിമങ്ങൾ നടത്തി അതിനാൽ ലാഭം പെരുപ്പിച്ചു കാണിച്ചു ഇപ്പോൾ ഇവ അക്കൌണ്ടിംഗ് ക്രമക്കേടുകളിൽ ചിലതാണ് അതിലൊന്ന് ലാഭത്തെ പെരുപ്പിച്ചു കുറഞ്ഞ മൂല്യത്തകർച്ചയുടെ രൂപത്തിൽ മോശം അക്കൌണ്ടിംഗ് നയങ്ങൾ വരാൻ സാധ്യതയുള്ള വിവിധ അപകടസാധ്യതകൾ പ്രസ്താവിക്കാതിരിക്കുക അവ അനിശ്ചിതകാല ബാധ്യതകളാകാൻ ഉള്ള സാധ്യത പ്രസ്താവിക്കാതിരിക്കുക ആവശ്യമുള്ളിടത്ത് വ്യവസ്ഥകൾ ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെ ആയിരുന്നു പ്രധാന ക്രമക്കേടുകൾ ഈ സമയത്തു ലോകത്തിലെ പല സ്ഥലങ്ങളിലും അവർ പവർ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ ആരംഭിക്കുകയും ധാരാളം പണം കടലാസിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നാൽ ഈ പ്ലാന്റുകൾ കൂടുതലായി ഒന്നും തന്നെയില്ലായിരുന്നു പക്ഷേ അവർ എൻറോണിന് ധാരാളം റോയൽറ്റി നൽകുകയായിരുന്നു അതിനാൽ ഒരു ഇന്റേണൽ വരുമാനം കമ്പനിക്ക് ഉണ്ടായിരുന്നു എൻറോണിന്റെ പുസ്തകങ്ങളിൽ അവർ അതിനെ ഒരു ലാഭമായും സബ്സിഡിയറികളുടെ പുസ്തകങ്ങളിൽ മൂലധനച്ചെലവായി കാണിക്കും കമ്പനി തകർന്നപ്പോൾ മിക്ക പ്ലാന്റുകളിലും ഒന്നും ഇല്ല എന്ന് മനസ്സിലാവുകയും അവ എല്ലാം നഷ്ടത്തിൽ ആവുകയും ചെയ്തു 3 മുതൽ 4 വർഷം വരെ അവർ ഈ ചെലവുകൾ മൂലധന പ്രവർത്തനമായി കാണിക്കുകയായിരുന്നു അതിനു അവരെ സഹായിച്ചത് ഊർജ്ജ വ്യവസായത്തിന്റെ ചില പ്രത്യേകതകൾ ആണ് ഊർജ വ്യവസായത്തിൽ നിക്ഷേപിച്ചു ഊർജ നിർമാണം തുടങ്ങുന്നതിനു കുറച്ചു അധികം കാലം എടുക്കും ഈ ഗെസ്റ്റേഷൻ കാലയളവ് മുൻ നിറുത്തി ആണ് അക്കൌണ്ടിങ്ങിൽ കളിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇന്ത്യയിൽ രത്നഗിരിക്ക് സമീപമുള്ള ദാബോളിൽ എൻറോണിന്റെ പ്ലാന്റിലും ഇത്തരം കോർപ്പറേറ്റ് തട്ടിപ്പുകളും രാഷ്ട്രീയ വഞ്ചനയും നടന്നിരുന്നു ഇന്ത്യയിൽ മാത്രം അല്ല മറ്റു രാജ്യങ്ങളിലും അവരുടെ സബ്സിഡിയറികളാണ് ഇത്തരം തിരിമറികൾ നടത്തിയത് പക്ഷേ യുഎസ് പുസ്തകങ്ങളിൽ ഇത് പ്രധാനമായും ആഭ്യന്തര വരുമാനത്തിൽ നിന്നുള്ള ലാഭമാണെന്ന് റിപ്പോർട്ടുചെയ്തു ചുരുക്കത്തിൽ ഓഡിറ്റർമാരുമായി താൽപ്പര്യ വൈരുദ്ധ്യമുണ്ടായിരുന്നു അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓഡിറ്റർമാർ ആർതർ ആൻഡേഴ്സണായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ഓഡിറ്റ് സ്ഥാപനം ബിഗ് ഫോറിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം അതിനേക്കാൾ വലിയ പ്രമുഖ ഓഡിറ്റ് സ്ഥാപനങ്ങൾക്ക് എൻറോണിന് വളരെ ബഹുമാനമുണ്ടായിരുന്നു പക്ഷേ അവ പരസ്പരവിരുദ്ധമായ റോളുകളിലായിരുന്നു അവർ ഓഡിറ്റർമാരായിരുന്നു അവർ കൺസൾട്ടന്റുമാരും തട്ടിപ്പിന്റെ കക്ഷിയുമായിരുന്നു അതിനാൽ സ്വതന്ത്രമായി നിലകൊള്ളാൻ ഓഡിറ്റോറിസിന് കഴിഞ്ഞില്ല അക്കൌണ്ടിങ് പരാജയം മാത്രമല്ല സ്റ്റാഫ് പോളിസിയും പരാജയപെട്ടു ക്രമകേടുകൾ കണ്ടെത്തുന്നതിൽ സ്വതന്ത്ര ഡയറക്ടർമാർ പരാജയപ്പെട്ടു ബോർഡിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ എന്നിവർ ഉണ്ടെന്നും സ്വതന്ത്ര ഡയറക്ടർമാരുണ്ടെന്നും നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ എൻറോൺ പ്രൊഫഷണലായി മാനേജുചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നതു കൊണ്ട് ഒരു പ്രോമോട്ടിങ് ഗ്രൂപ്പ് ഒന്നും ഇല്ല അക്കൌണ്ടന്റുമാർ അഭിഭാഷകർ കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾ എന്നിവരൊക്കെ ബോർഡിലുണ്ടായിരുന്നുവെങ്കിലും ക്രമക്കേട് കണ്ടെത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു കമ്പനിക്ക് ഒരു വലിയ റിട്ടയർമെന്റ് ഫണ്ട് ഉണ്ടായിരുന്നു ഇത് അവരുടെ സ്വന്തം സ്റ്റോക്കിലാണ് നിക്ഷേപിച്ചത് സ്റ്റോക്ക് പ്രൈസ് നിയന്ത്രിക്കാൻ അവർ ഇത് ഉപയോഗിച്ചു ഇത് ജീവനക്കാരുടെ റിട്ടയർമെന്റ് ഫണ്ടിന് വിനാശകരമായ നഷ്ടം വരുത്തി കാരണം കമ്പനി തകർന്നപ്പോൾ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു അവരുടെ റിട്ടയർമെന്റ് പണത്തെയും ബാധിച്ചു എന്നാൽ മുൻ സിഇഒ ഇതിനകം തന്നെ സ്വന്തം സ്റ്റോക്കിൽ പണം ആക്കിയിരുന്നു അതിനാൽ കമ്പനിക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകൾക്ക് ക്രമക്കേടുകളെ കുറിച്ച അറിയാമായിരുന്നു എന്ന് വേണം മനസിലാക്കാൻ മാത്രമല്ല ജീവനക്കാർക്കും ചെറുകിട ഓഹരി ഉടമകൾക്കും ഗണ്യമായി നഷ്ടം വന്നപ്പോൾ അവർ പണം സമ്പാദിച്ചു ഇത് മാത്രം അല്ല ഒരു രാഷ്ട്രീയ ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നു എൻറോൺ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ആയി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു അതിനാൽ തന്നെ ഈ ക്രമക്കേടുകൾ നിരീക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപെട്ടു ഇതാണ് മാനേജീരിയലിസം എന്ന് അറിയപ്പെടുന്നത് അതായത് മാനേജർമാർ സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു പ്രതിഫലമായി കമ്പനിയിൽ നിന്നും ശമ്പളവും കൂടാതെ അവരുടെ പങ്കാളിത്ത സ്ഥാപനങ്ങളിൽ നിന്നും അവർ ധാരാളം ലാഭവും നേടി ബോർഡ് അംഗങ്ങൾ സ്വന്തന്ത്രർ ആയി നിലകൊള്ളേണ്ടവർ ആയിരുന്നിട്ടും അവർ എൻറോണിൽ നിന്നും ഫീസ് ഇനത്തിലും കോൺസൽറ്റൻസി ഇനത്തിലും പണം ഉണ്ടാക്കി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകൾ ഉണ്ടായിരുന്നു സിഇഒമാർ മാനേജർമാർ ജീവനക്കാർ ഒക്കെ സ്റ്റോക്ക് ഓപ്ഷനുകളിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നതിനാൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു തത്ത്വത്തിൽ ഇത് ഒരു നല്ല ഇൻസെന്റീവ് ആണ് അതിനാൽ തന്നെ അവർ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കേണ്ടതിനു ഒരു നല്ല പ്രോത്സാഹനമാണ് എന്നാൽ ഉയർന്ന പുസ്തക ലാഭം കാണിക്കുന്നതിനു ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു ഇത് കമ്പനിയുടെ ഓഹരി വില ഹ്രസ്വകാലത്തേക്ക് ഉയർത്തി ഒരു ചെറിയ കാലയളവിൽ അവർ ധാരാളം പണം സമ്പാദിച്ചിരുന്നു നിയന്ത്രണവും മാനേജുമെന്റും ഓവർലാപ്പുചെയ്യുന്നു കോർപ്പറേറ്റ് പങ്കാളിത്തമുണ്ടെന്ന് നമ്മൾ ഇതിനകം കണ്ടിരുന്നുവല്ലോ അതിനാൽ സ്വന്തന്ത്രമായി നിലകൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്ത സ്ഥാപനങ്ങൾ എൻറോണിന് സാധുവായ നിക്ഷേപമായിരുന്നു അതിനാൽ എൻറോൺ ആ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുകയും അവർ രണ്ട് വഴികളിൽ നിന്നും ലാഭം നേടുകയും ചെയ്തു സാമ്പത്തിക മാനേജ്മമെൻറ് പരാജയവും ഉണ്ടായി ഒ പരാജയപെട്ടു സാമ്പത്തിക റിപ്പോർട്ടുകൾ ബാലൻസ് ഷീറ്റ് പി എൽ എന്നിവ വളരെ സങ്കീർണ്ണമായിരുന്നു അതിനാൽ ധനകാര്യ വിദഗ്ധർക്ക് പോലും അവർ അവിടെ എന്താണ് എഴുതിയതെന്ന് മനസിലാക്കാൻ കഴിഞ്ഞില്ല ശരിയായ കുറിപ്പുകളില്ല ശരിയായ വിശദാംശങ്ങളില്ല അതിനാൽ മനപൂർവ്വം അക്കൌണ്ടുകൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാക്കി റിപ്പോർട്ടുകൾ അവലോകനം ചെയ്യുന്ന പ്രത്യേക സംഘവും അവരുടെ ജോലി നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു അവരുടെ റിട്ടയർമെന്റ് പണത്തിന്റെ 50 ശതമാനത്തിലധികം അവരുടെ സ്വന്തം സ്റ്റോക്കിലാണ് നിക്ഷേപിച്ചതെന്നും ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ കമ്പനിയുടെ പ്രകടനം ഉയർത്തുന്നതിന് പകരം സ്റ്റോക്ക് വില ഉയർത്തുക എന്നതായി പൊതു ലക്ഷ്യം ഇതിനുശേഷം നിരവധി പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടു അതിലൊന്നാണ് ഓഡിറ്റർമാരെ മറ്റ് സേവനങ്ങൾ ചെയ്യാൻ അനുവദിക്കരുത് എന്നത് കാരണം അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു അപ്പോൾ ഗവൺമെന്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒപ്പം ഇൻസൈഡർ ട്രേഡിംഗ് ഒഴിവാക്കാൻ അവർ നിയമങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് കാരണം എൻറോണിന്റെ ചുക്കാൻ പിടിക്കുന്ന ആളുകളും അവരുടെ സ്റ്റോക്ക് വിലയിൽ ഇൻസൈഡർ ട്രേഡിംഗിൽ ഏർപ്പെട്ടിരുന്നു റിട്ടയർമെന്റ് ഫണ്ടുകളുടെ ആസ്തികളുടെ ശതമാനവും അവരുടെ സ്വന്തം സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ കഴിയുന്നതും പരിശോധിക്കേണ്ടതുണ്ട് മികച്ച അക്ക ണ്ടിംഗ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ആവശ്യം പി എൽ ബാലൻസ് ഷീറ്റ് എന്നിവയുടെ ഫോർമാറ്റുകൾ ഞങ്ങൾ ചർച്ച ചെയ്തതായി ഞാൻ കരുതുന്നു യുഎസ് ഫോർമാറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഫോർമാറ്റുകൾ വളരെ മികച്ചതാണ് കൂടുതൽ സുതാര്യമാണ് ഇപ്പോൾ യുഎസും അവരുടെ ഫോർമാറ്റ് മാറ്റി പക്ഷേ മൊത്തത്തിൽ സങ്കീർണ്ണമല്ലാത്ത റിപ്പോർട്ടിംഗ് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് പി എൽ ക്യാഷ് ഫ്ലോ എന്നിവ വായിക്കാൻ എളുപ്പമാവുകയുള്ളൂ അതിനാൽ ഈ പരിഷ്കാരങ്ങളാണ് നിർദ്ദേശിക്കപ്പെട്ടത് ഇപ്പോൾ പ്രത്യേകിച്ചും എൻറോൺ പ്രശ്നം കാരണം നിയമത്തിൽ വരുത്തിയ ചില പുതിയ മാറ്റങ്ങൾ നമുക്കു പരിശോധിക്കാം മറ്റു പല കമ്പനികളും ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു സോക്സ് അല്ലെങ്കിൽ സർബനേസ് ഓക്സ്ലി ആക്റ്റ് എന്നറിയപ്പെടുന്ന നിയമം ഒരു അമേരിക്കൻ നിയമമാണ് എങ്കിലും ഇത് മറ്റ് രാജ്യങ്ങളിലും നിയന്ത്രണത്തെ ബാധിച്ചു അതിനാൽ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത് ഓഡിറ്റുകൾ നടത്തുന്ന രീതിയെയും കോർപ്പറേറ്റ് ഭരണം അത് യുഎസിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും കാര്യമായി ബാധിച്ചു ഇപ്പോൾ ഇത് ഒരു ഹ്രസ്വ ചരിത്രമാണ് സർബനേസും ഓക്സ്ലിയും എന്ന രണ്ടു കോൺഗ്രെസ്സ്മെൻ ആണ് ഈ നിയമം കൊണ്ടുവന്നത് ഇത് പൊതു കമ്പനി അക്കൌണ്ടിംഗ് പരിഷ്കരണത്തെയും നിക്ഷേപ സംരക്ഷണ നിയമത്തെയും കുറിച്ചാണ് കോർപ്പറേറ്റ് ഓഡിറ്റിംഗ് അക്കൌണ്ടബിലിറ്റി റെസ്പോൺസിബിലിറ്റി ആൻഡ് ട്രാൻസ്പെരൻസി ആക്ട് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര് ആക്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് ഈ പേരിൽ നിന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിനാൽ പൊതുജനവിശ്വാസം പുനസ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം കാരണം എൻറോണിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ധാർമ്മിക ബിസിനസ്സ് രീതികൾ ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടിയിരുന്നു ഇപ്പോൾ നിയമത്തിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇവിടെ ചർച്ചചെയ്യുന്നു പബ്ലിക് കമ്പനി അക്കൌണ്ടിംഗ് ഓവേര്സിറ്റ ബോർഡ് Public Company Accounting Oversight Board എന്ന ഒരു പുതിയ ബോർഡ് സൃഷ്ടിച്ചു എസ്ഇസിയുടെ അധികാരത്തിൻ കീഴിൽ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി സൃഷ്ടിച്ച ഓഡിറ്റർമാരുടെ ഒരു റെഗുലേറ്ററാണ് ഇത് അതായത് ഇന്ത്യൻ ഐസിഐഐക്ക് തുല്യമായ എഐസിപിഎ പോലുള്ള പ്രൊഫഷണൽ ബോഡി ഇത് ഒരു പബ്ലിക് അക്കൌണ്ടിംഗ് മേൽനോട്ട ബോർഡാണ് ഇപ്പോൾ ഓഡിറ്റർസ് സ്വതന്ത്രരായി പ്രവർത്തിക്കാൻ സാധ്യമാണ് കൺസൾട്ടൻസി പോലുള്ള മറ്റ് സേവനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഓഡിറ്റർമാരെ ഇത് വിലക്കുന്നു കൂടാതെ ഓഡിറ്റ് പങ്കാളിയുടെ റൊട്ടേഷനും ആവശ്യമാണ് താൽപ്പര്യ വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കണം അതിനാൽ സിഇഒ അല്ലെങ്കിൽ സിഎഫ്ഒ സ്ഥാനം രാജി വച്ചാൽ അതേ വ്യക്തിക്ക് ഓഡിറ്റ് ഇടപഴകലുകൾ ലഭിക്കരുത് പിന്നെ കോർപ്പറേറ്റ് ഉത്തരവാദിത്തം ഇത് ഓഡിറ്റ് കമ്മിറ്റികൾക്ക് മിനിമം സ്വാതന്ത്ര്യ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു സിഇഒമാരും സിഎഫ്ഒയും ആനുകാലിക റിപ്പോർട്ടുകൾ സത്യസന്ധതയ്ക്കും കൃത്യതയ്ക്കും സാക്ഷ്യപ്പെടുത്തണം മെച്ചപ്പെട്ട സാമ്പത്തിക വെളിപ്പെടുത്തൽ അതിനാൽ ഓഫ് ബാലൻസ് ഷീറ്റ് ഇടപാടുകൾ വെളിപ്പെടുത്തുന്നതിന് പുതിയ അക്കൌണ്ടിംഗ് മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുഅവയ്ക്ക് തത്സമയ വെളിപ്പെടുത്തൽ ആവശ്യമാണ് ഇപ്പോൾ അനലിസ്റ്റ് താൽപ്പര്യ വൈരുദ്ധ്യം അനലിസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നു കമ്പനിയുമായി അവർക്ക് താൽപ്പര്യ വൈരുദ്ധ്യമുണ്ട് അതിനാൽ ഗവേഷണത്തിന്റെ വസ്തുനിഷ്ഠത മെച്ചപ്പെടുത്തുകയും നിക്ഷേപകർക്ക് ഉപയോഗപ്രദവും വിശ്വസനീയവുമായ വിവരങ്ങൾ നൽകുകയും ചെയ്യുക എന്നത് ഒരു ലക്ഷ്യമായിരുന്നു കമ്മീഷൻ വിഭവങ്ങളും അധികാരവും അതിനാൽ നിയമപ്രകാരം പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ എസ്ഇസി ഒരു കമ്മീഷൻ സൃഷ്ടിച്ചു പഠനങ്ങളും റിപ്പോർട്ടുകളും യു എസ് ലെ പൊതുസ്ഥാപനമായ കംട്രോളർ ജനറൽ പബ്ലിക് അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങളുടെ ഏകീകരണത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി പ്രൈസ് വാട്ടർഹൌസ് കൂപ്പർ പോലുള്ള ധാരാളം അക്കൌണ്ടിംഗ് സ്ഥാപനങ്ങൾ കുത്തക സൃഷ്ടിച്ചതിനെ കുറിച് പഠനങ്ങൾ നടത്തി കോർപ്പറേറ്റ് ക്രിമിനൽ തട്ടിപ്പ് ഇപ്പോൾ പൊതുവേ വൈറ്റ് ക്രൈം കണക്കാക്കപ്പെടാതെ പോകുന്നു അവരുടെ പിഴകൾ വർദ്ധിപ്പിച്ചു അതിനാൽ വൈറ്റ് കോളർ ക്രൈം പെനാൽറ്റി വർദ്ധിപ്പിച്ചു സിഇഒയെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ കോർപ്പറേറ്റ് ടാക്സ് റിട്ടേൺ സിഇഒ സമർപ്പിക്കണം കോർപ്പറേറ്റ് ഫ്രോഡ് അക്കൌണ്ടബിലിറ്റി വർദ്ധിപ്പിച്ചു പിന്നീട് ജോബ്സ് ആക്ട് എന്ന ഒരു ഭേദഗതി വരുത്തി സോക്സ് ആക്റ്റ് ചെറുകിട കമ്പനികൾക്ക് കൂടുതൽ ആകർഷകം ആക്കി ഇത് യു എസ് നുള്ളിൽ ഉള്ള കമ്പനികൾക്കും യുഎസിൽ ഏതെങ്കിലും ഇക്വിറ്റിയോ ലിസ്റ്റുചെയ്തിട്ടുള്ള എല്ലാ അന്താരാഷ്ട്ര കമ്പനികൾക്കും ബാധകമാണ് അതിനാലാണ് ഇത് ഒരുതരം ആഗോള നിയമം ആയി മാറിയത് എല്ലാ ഓഡിറ്റ് സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ് ഇത് വളരെയധികം നിയന്ത്രണം കൊണ്ടുവരുന്നുവെന്ന ചില വിമർശനങ്ങളും ഉണ്ടായിരുന്നു മൊത്തത്തിൽ മികച്ച നിക്ഷേപ ആത്മവിശ്വാസത്തിനും കൂടുതൽ കൃത്യവും വിശ്വസനീയവുമായ പ്രസ്താവനകൾക്കും ഇത് പ്രശംസിക്കപ്പെടുന്നു ഒരു ധാർമ്മിക സംസ്കാരത്തെ പരിപോഷിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇന്ത്യൻ സമ്പ്രദായത്തിൽ ധാർമ്മികതയ്ക്കു എത്ര പ്രാധാന്യം നൽകുന്നുവെന്നും നമ്മൾ ഇതിനകം കണ്ടു യുഎസിലെ നിയമപ്രകാരം ധാർമ്മിക സംസ്കാരത്തിന് ഇത് വഴി കൂടുതൽ ഊന്നൽ നൽകി ഇപ്പോൾ സമാനമായ നിയമങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളും അവതരിപ്പിച്ചു ഉദാഹരണത്തിന് സി സോക്സ് ജർമ്മനിയിലും ജപ്പാനിലും ദക്ഷിണാഫ്രിക്കയിലും നിരവധി രാജ്യങ്ങളിലും സമാനമായ നിയമങ്ങൾ നിലവിൽ വന്നു ഇന്ത്യയിലും കോർപ്പറേറ്റ് ഗോവെർണൻസ് നിയമങ്ങൾ ഭേദഗതി ചെയ്തു കൂടുതൽ കർക്കശമാക്കിയിട്ടുണ്ട് ഇത്രയും വച്ച് നമ്മുടെ കോർപ്പറേറ്റ് ഗോവെർണൻസ് ചർച്ച നമുക് അവസാനിപ്പിക്കാം കോർപ്പറേറ്റ് ഗോവെർണൻസ് എന്താണ് അതിന്റെ ആഗോള മോഡലുകൾ ഏതൊക്കെ എന്ന് നമ്മൾ പഠിച്ചു കോർപ്പറേറ്റ് ഗോവെർണൻസ് പരാജയമാകുമ്പോൾ എങ്ങനെ എന്ന് എൻറോൺ കേസ് നമുക് കാണിച്ചു തന്നു തുടർന്ന് വന്ന സോക്സ് ഭേദഗതിയും നമ്മൾ ചർച്ച ചെയ്തു ഇത് വച്ച് നിർത്താം നമസ്തെ